ലോജിസ്റ്റിക് റിഗ്രഷൻ ഈ ലെക്ച്ചറിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന ടെക്നിക്കിനെക്കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിഫിക്കേഷൻ ടെക്നിക് ആണ് അത് ചില പ്രോബബിലിറ്റി വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കി അടിസ്ഥാനപരമായി ഒരു ലീനിയർ ബൌണ്ടറി റീജിയൻസ് വികസിപ്പിക്കും പൊതുവെ പറഞ്ഞാൽ നമ്മൾ ഒരു ലീനിയർ ഡിസിഷൻ ബൌണ്ടറി വളത്തിയെടുക്കും ഈ ടെക്നിക് നമുക്ക് നോൺ ലീനിയർ ഡിസിഷൻ ബൌണ്ടറിസ് വികസിപ്പിക്കുനതിനും ഉപയോഗിക്കാം അതിനെ നമ്മൾ പോളിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രെഷൻ എന്ന് പറയുന്നു നമ്മൾ ലീനിയർ ബൌണ്ടറികൾ വികസിപ്പിക്കാൻ പോകുന്ന പല പ്രോബ്ലങ്ങളുടെയും പരിഹാരം പലപ്പോഴും പാരാമീറ്റർ കണക്കാക്കലിനായുള്ള ഒരു നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിന് കാരണമാകുന്നു ഈ ലെക്ച്ചറിൽ നിങ്ങൾ അത് കാണും അതിനാൽ ഒരു പുതിയ ഡാറ്റാ പോയിന്റ് നൽകിയാൽ ആ ഡാറ്റാ പോയിന്റ് ഉത്ഭവിച്ച ക്ലാസ് പ്രവചിക്കുക എന്നതാണ് ഈ ടെക്നിക്കിന്റെ ലക്ഷ്യം അതിനാൽ ആ അർത്ഥത്തിൽ ഇത് ഒരു ക്ലാസ്സിഫിക്കേഷൻ ടെക്നിക് ആണ് ഇതിനെ പലതരം പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കാം മാത്രമല്ല ഇത് വലിയ ക്ലാസ് പ്രോബ്ലങ്ങൾക്കും വളരെ ഫലപ്രദമാണ് നമ്മൾ മുമ്പ് കണ്ട കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രെമിക്കാം മുമ്പ് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിച്ചു നമ്മൾ മുമ്പ് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നു ഉറപ്പാക്കണം ഒരു പുതിയ ഡാറ്റാ പോയിൻറ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഏതു ക്ലാസ്സിലാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ചുമതലയാണ് ക്ലാസ്സിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു ഡാറ്റ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിരവധി വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം പക്ഷേ വിഭാഗങ്ങളുടെ എണ്ണം 2 ആകുമ്പോൾ അതിനെ നമ്മൾ ബൈനറി ക്ലാസ്സിഫിക്കേഷൻ എന്ന് പറയുന്നു ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളെ ലളിതമായ yes or no പ്രശ്നങ്ങളെന്നും നമുക്ക് പറയാം അവിടെ നിങ്ങൾ ഡേറ്റ പോയിന്റ് എന്തെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ പെടുന്നു അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഒരു ഡാറ്റ X1 മുതൽ Xn വരെ നിരവധി ആട്രിബ്യൂട്ടുകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇതിനെ ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്നും വിളിക്കാം ഈ ഇൻപുട്ട് ഫീച്ചേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റിവ് ആയേക്കാം ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അത്പോലെ തന്നെ ഉപയോഗിക്കാം എന്നാൽ ക്വാളിറ്റേറ്റിവ് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഈ ക്വാളിറ്റേറ്റിവ് ഫീച്ചേഴ്സുകളെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് ആക്കി മാറ്റുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഒരു ഫീച്ചറിൽ എനിക്ക് yes or no പോലുള്ള ഒരു ബൈനറി ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഞാൻ ഇവിടെ yes എന്ന് പറയാം നമുക്ക് 0 1 0 3 എന്നും പറയാം മറ്റൊരു ഡാറ്റാ പോയിന്റ് 0 05 2 എന്നിങ്ങനെ പോകുന്നു അതിനാൽ ഇവ ക്വാണ്ടിറ്റേറ്റീവ് സംഖ്യകളാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതേസമയം ഇവ ക്വാളിറ്റേറ്റിവ് ഫീച്ചേഴ്സുകളുമാണ് ഇപ്പോൾ yes 1 ആയും no 0 ആയും കോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചറുകളാക്കി മാറ്റാം അപ്പോൾ അവയും അക്കങ്ങളായി മാറുന്നു ഇത് ചെയ്യുന്നതിനുള്ള വളരെ അസംസ്കൃതമായ മാർഗമാണിത് ക്വാളിറ്റേറ്റിവ് ഫീച്ചറുകളെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചറുകളിലേക്കും മറ്റും കോഡ് ചെയ്യുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ ഉണ്ടായിരിക്കാം ഈ ക്വാളിറ്റേറ്റിവ് ഫീച്ചറുകളെ അക്കങ്ങളാക്കി മാറ്റാതെയും മറ്റും നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചില ഡാറ്റാ അനലിറ്റിക്സ് സമീപനമുണ്ടെന്നും നിങ്ങൾ ഓർക്കണം അതിനാൽ അതും സാധ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ ഫീച്ചറുകൾ ഉണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിത്രപരമായ ആവിഷ്കാരം നമുക്കൊന്ന് നോക്കാം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നതിന് മാത്രമായി നമുക്ക് ഈ 2 ഡൈമൻഷനുള്ള ഡാറ്റയുടെ ഈയൊരു ഉദാഹരണം എടുക്കാം അതിനാൽ ഇവിടെ X എന്നത് x1 x2 എന്ന രണ്ട് വേരിയബിളുകൾ ആണ് നമുക്ക് x1 ഇവിടെയും x2 ഇവിടെയും ഉണ്ടെന്ന് പറയാം അതിനാൽ ഇത് ഇത്തരത്തിലാണ് ഡേറ്റ ക്രമീകരിച്ചിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള എല്ലാ ഡാറ്റയും ഒരു വിഭാഗത്തിൽ പെടുന്നുവെന്നും എല്ലാ സ്റ്റാർഡ് ഡാറ്റയും മറ്റൊരു വിഭാഗത്തിൽ പെട്ടതാണെന്നും നമുക്ക് അനുമാനിക്കാം ചില x2 ഉം ഉണ്ടെന്നും അതുപോലെ സ്റ്റാർഡ് ഡാറ്റയ്ക്ക് ചില x1 ഉം ചില x2 ഉം ഉണ്ടെന്നും ശ്രദ്ധിക്കുക അതായതു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡാറ്റയുടെ ഇവിടെയുള്ള x1 x2 എന്നിവയുടെ എല്ലാ മൂല്യങ്ങളും ഒരു ക്ലാസ്സിന്റേതാണ് ഡാറ്റ ഇവിടെയുള്ളത് മറ്റൊരു ക്ലാസ്സിന്റേതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലുള്ള ഒരു ഹൈപ്പർപ്ലെയ്ൻ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഈ ഹൈപ്പർപ്ലെയിനിന്റെ ഒരു വശം പകുതി സ്പേസ് ആണെന്നും ഈ വശം മറ്റേ പകുതി സ്പേസ് ആണെന്നും നമ്മുടെ ലീനിയർ ആൾജിബ്ര മൊഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കുന്നു സാധാരണ നിർവചിച്ചിരിക്കുന്ന രീതിയിൽ ഹൈപ്പർപ്ലെയിനിന്റെ ഓരോ വശത്തും നിങ്ങൾക്ക് പോസിറ്റീവ് മൂല്യവും നെഗറ്റീവ് മൂല്യവും ഉണ്ടായിരിക്കും അതിനാൽ ഇത് ലീനിയർ ആൾജിബ്ര ക്ലാസുകളിലൊന്നിൽ നമ്മൾ വിശദമായി കൈകാര്യം ചെയ്ത കാര്യമാണ് അതായതു നിങ്ങൾ ക്ലാസ്സിഫിക്കേഷൻ പ്രശ്നം ചെയ്യുകയാണെങ്കിൽ എനിയ്ക്കു ഇവിടെ എവിടെയെങ്കിലും ഒരു ഡേറ്റ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അത് ഈ ക്ലാസ്സിന്റെ ഇവിടെ എവിടെയെങ്കിലും ഉള്ളതാണെന്നാണ് അതിനാൽ ഉദാഹരണത്തിന് നമുക്ക് ഇതിനെ ക്ലാസ് 0 എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ ക്ലാസ് 1 എന്ന് വിളിക്കാം കൂടാതെ ഒരു ഡാറ്റാ പോയിന്റ് ലൈനിന്റെ ഈ ഭാഗത്തേക്ക് വീഴുമ്പോഴെല്ലാം അത് ക്ലാസ് 0 ആണെന്നും ഒരു ഡാറ്റ പോയിന്റ് ഈ ഭാഗത്തേക്ക് വീഴുകയാണെങ്കിൽ വരിയുടെ ഈ വശം ഇത് ക്ലാസ് 1 എന്നും മറ്റും നമുക്ക് പറയാം എന്നിരുന്നാലും ഏതെങ്കിലും ഡാറ്റ പോയിന്റ് ശ്രദ്ധിക്കുക ഇത് ഇവിടെ പതിച്ചാലും അല്ലെങ്കിൽ ഇവിടെ പതിച്ചാലും നമ്മൾക്ക് ക്ലാസ് 0 എന്ന് പറയാൻ കഴിയും എന്നാൽ നിങ്ങൾക്കറിയാം ഇത് ശരിക്കും ഈ ക്ലാസുകളുടെ യഥാർത്ഥ വേർതിരിക്കലാണെങ്കിൽ ഇത് തീർച്ചയായും ക്ലാസ് 0 ൽ ഉൾപ്പെടുമെന്നത് അത് ഉറപ്പാണ് പക്ഷേ ഞാൻ ഈ വരിയോട് കൂടുതൽ അടുത്ത് വരുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്നുള്ളതാണോ അതോ ഈ ക്ലാസ്സിന്റെതാണോ എന്നതിനെക്കുറിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ട് കാരണം ഡേറ്റയിൽ സത്യത്തിൽ നോയിസ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ എനിക്ക് ഒരു ഡാറ്റ പോയിന്റ് ഉണ്ട് അത് ഇവിടെ യഥാർത്ഥ മൂല്യമാണ് എന്നിരുന്നാലും ശബ്ദം കാരണം അത് മറുവശത്തേക്കും മറ്റും വഴുതിപ്പോയേക്കാം അതിനാൽ ഞാൻ ഇതിലേക്ക് കൂടുതൽ അടുത്തുവരുമ്പോൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം അവബോധപൂർവ്വം താഴേക്ക് വരാം അതിനാൽ ഈ ഡാറ്റ പോയിന്റ് yes എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാ പോയിന്റ് ക്ലാസ് 0 ന്റെതാണ് 1 ഉത്തരമാണ് പക്ഷേ അത് വളരെ അസംസ്കൃതമാണ് അതിനാൽ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന ഇത്തരത്തിലുള്ള ചോദ്യം പ്രോബബിലിറ്റികൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും മികച്ചത് ചെയ്യാൻ കഴിയുമോ അതിനാൽ ഇത് ക്ലാസ് 1 ൽ ഉൾപ്പെടാനുള്ള സാധ്യത ഇതിലും വളരെ കൂടുതലാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഡിസിഷൻ ബൌണ്ടറിയിൽ നിന്ന് വളരെ അകലെയാണ് അതിനാൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും എന്നതാണ് ലോജിസ്റ്റിക്സ് റിഗ്രഷൻ അഭിസംബോധന ചെയ്യുന്ന ചോദ്യം അതിനാൽ ഞാൻ പറയുന്നത് ഒരു ക്ലാസ്സിൽ ആകാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ അതായിരിക്കും yes or no എന്ന് ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് ശരിയല്ലേ അതായത്ഇത് ഒരു ക്ലാസ്സിന്റേതാണെന്ന് പറയാൻ സാധിക്കും ഇത് ക്ലാസിന്റേതാണ് എന്ന പറയുന്നതായിരിക്കും കൂടുതൽ സൂക്ഷ്മമായ ഉത്തരം എന്നാൽ ആ ഡീറ്റയിലേക്ക് ക്ലാസ് നിയോഗിക്കുമ്പോൾ പ്രോബബിലിറ്റി കൂടുകയും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യണം മറുവശത്ത് yes or no പോലെയുള്ള ബൈനറി ഉത്തരങ്ങൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ത്രെഷോൾഡിംഗിലൂടെ yes or no എന്ന ഉത്തരങ്ങളിലേക്ക് എനിക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയും അത് ലോജിസ്റ്റിക്സ് റിഗ്രഷൻ മെത്തഡോളജി വിവരിക്കുമ്പോൾ നാം കാണും അതിനാൽ ഈ പ്രോബബിലിറ്റിയെ മാതൃകയാക്കുന്നതിലൂടെ ഡാറ്റ ഒരു പ്രത്യേക ക്ലാസിൽ പെട്ടതാണോ അല്ലയോ എന്ന് വ്യക്തമായി പറയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല മറുവശത്ത് അതെ എന്നോ ഇല്ലെന്നോ പറയുന്നതിനുപകരം സൂക്ഷ്മമായ ഉത്തരം ലഭിക്കുന്നത് നമുക്ക് പ്രയോജനം ലഭിക്കും അതിനാൽ ഈ പ്രോബബിലിറ്റീസിനെ എങ്ങനെ മോഡൽ ചെയ്യാം എന്നതാണ് ഇവിടത്തെ ചോദ്യം അതിനാൽ നമുക്ക് തിരികെ പോയി നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചിത്രം നോക്കാം അതുപോലെ ഇത് x1 x2 ആണെന്നും പറയാം ഓർക്കുക സാധാരണയായി ഇത് ഹൈപ്പർ പ്ലെയിനിനിൽ ഇവിടെ ഇതിന്റെ സൊല്യൂഷൻ വെക്റ്റർ ഫോമിൽ തന്നിരിക്കുന്നു X1 x2 എന്നിവ വിപുലീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഇത് β0 β11 x1 β12x2 എന്ന് എഴുതാം അതായതു ഇതാണ് ഈ റ്റു ഡയമെൻഷണൽ വരിയുടെ സമവാക്യം ഇപ്പോൾ ഇത് ഒരു പ്രോബബിലിറ്റി ആണെന്ന് വിചാരിക്കുക തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഈ x ന്റെ ബൌണ്ടറി പരിമിതപ്പെടുത്തിയിട്ടില്ല കാരണം ഇത് ഒരു ലീനിയർ ഫങ്ക്ഷൻ ആണ് പ്രോബബിലിറ്റി 0 നും 1 നും ഇടയിലായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും 0 നും 1 നും ഇടയിലുള്ള ചില ഫംഗ്ഷനുകൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ ലീനിയർ ഫംഗ്ഷനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നതിന്റെ കാരണം ഇതാണ് ഇത് ഡിസിഷൻ ബൌണ്ടറി ആണ് അതിനാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിക്കും ഈ ഡിസിഷൻ ബൌണ്ടറി നോക്കിക്കൊണ്ട് yes or no എന്നോ അല്ലെങ്കിൽ എന്നോ പറയുന്നതിനുപകരം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സമവാക്യം തന്നെ ഉപയോഗിച്ച് ചില പ്രോ ബബിലിറ്റിക്ക് വ്യാഖ്യാനം കൊണ്ടു വരാനാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ സമവാക്യത്തിൽ ഉറച്ചുനിൽക്കുന്നതും ഹൈപ്പർപ്ലെയ്ൻ ആയ ഈ സമവാക്യത്തിന്റെ പ്രവർത്തനമായി പ്രോബബിലിറ്റികളെ മാതൃകയാക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ ശ്രമിക്കുന്നതും അതിനാൽ നിങ്ങൾക്ക് അൽപ്പം വ്യത്യസ്തമായ എന്തെങ്കിലും ചിന്തിക്കാം തുടർന്ന് x ന്റെ p എന്ന് പറയുന്നതിന് പകരം ഇതാണ് log p β0 β1 x എന്ന് പറയാം ഈ സാഹചര്യത്തിൽ അത് ഒരു വശത്ത് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ലോഗ് p β0 β1 x എന്ന് എഴുതുകയാണെങ്കിൽ x ന്റെ p ഒരിക്കലും നെഗറ്റീവ് ആകില്ലെന്ന് ഞാൻ ഉറപ്പാക്കും എന്നിരുന്നാലും x ന്റെ പോസിറ്റീവ് വശത്ത് p ക്ക് ∞ ലേക്ക് പോകാം 0 നും 1 നും ഇടയിൽ x ന്റെ p യെ ബന്ധിപ്പിക്കേണ്ടതിനാൽ അത് വീണ്ടും ഒരു പ്രശ്നമാണ് അതിനാൽ ഇത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതിനാൽ ഇത് ഒരു വശത്ത് മാത്രം പരിമിതപ്പെടുത്തുന്നു അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൂടുതൽ സങ്കീർണമായ എന്തെങ്കിലും ഉണ്ടോ അടുത്ത ആശയം p of X നെ എങ്ങനെ ഇനി സെഗ്മോയിടൽ ഫംഗ്ഷൻ ആയി എഴുതാം എന്നാണ് സിഗ്മോയ്ഡൽ പ്രവർത്തനത്തിന് പല മേഖലകളിലും പ്രസക്തിയുണ്ട് ന്യൂറൽ നെറ്റ്വർക്കുകളിലും മറ്റ് രസകരമായ ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണിത് അതിനാൽ സിഗ്മോയിഡിന് രസകരമായ ഒരു രൂപമുണ്ട് അത് ഇവിടെയുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഫോം നോക്കാം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഒന്നാമത്തേത് ഈ ഹൈപ്പർപ്ലെയ്ൻ സമവാക്യം പ്രോബബിലിറ്റി എക്സ്പ്രഷനിൽ ഒട്ടിക്കാൻ ഞങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നു എന്നതാണ് കാരണംഅതാണ് ഡിസിഷന്റെ സർഫേസ് എങ്ങനെയെങ്കിലും ആ ഹൈപ്പർപ്ലെയ്നെ പ്രോബബിലിറ്റി വ്യാഖ്യാനത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് അവബോധപൂർവ്വം ഓർക്കുക അതിനാൽ ഞങ്ങൾ ഇപ്പോഴും ഈ β0 β1 x ൽ ഉറച്ചുനിൽക്കുന്നതിന്റെ കാരണം ഇതാണ് ഇനി നമുക്ക് ഈ സമവാക്യം നോക്കാം തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ നിങ്ങൾ ഈ വാദം എടുക്കുകയാണെങ്കിൽ β0 β1 x ആയിരിക്കും അതിനാൽ നിങ്ങൾ എടുക്കുന്ന X ന്റെ മൂല്യത്തെ ആശ്രയിച്ച് ആ വാദം ∞ മുതൽ ∞ വരെ പോകാം അതിനാൽ എഴുതുകയാണെങ്കിൽ ഒരൊറ്റ വേരിയബിൾ കേസ് എടുക്കുക ഞാൻ β0 β1 എന്നെഴുതിയാൽ 1 വേരിയബിൾ X വെക്റ്റർ അല്ല എന്ന് പറയാം ഇപ്പോൾ β1 പോസിറ്റീവ് ആണെങ്കിൽ X എന്നത് വളരെ വലിയ മൂല്യമാണെങ്കിൽ ഈ സംഖ്യ വളരെ വലുതായിരിക്കും β1 നെഗറ്റീവാണെങ്കിൽ നിങ്ങൾ X എടുത്താൽ പോസിറ്റീവ് വശത്ത് ∞ വളരെ വലിയ മൂല്യമായി മാറും അതുപോലെ β1 മറ്റ് മൂല്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് X നെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയി തിരഞ്ഞെടുക്കാം തുടർന്ന് ഇത് ∞ മുതൽ ∞ വരെ പരിധിയില്ലാത്തതാക്കുക അതിനാൽ β0 β1 X മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ഫംഗ്ഷന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇത് e power ∞ ഡിവൈഡഡ് ബൈ 1 e power ∞ എന്ന് കിട്ടും അല്ലെങ്കിൽ നിങ്ങള്ക്ക് ഇത് ഒരു വലിയ സംഖ്യ ആണെന്ന് വിചാരിക്കാം അതായതു ആ കേസിൽ ന്യുമറേറ്റർ 0 യും ഡിനോമിനേറ്റർ 1 0 യും ആകും അതിനാൽ താഴത്തെ ഭാഗത്ത് ഈ എക്സ്പ്രെഷൻ 0 കൊണ്ട് പരിമിതപ്പെടുത്തും ഇപ്പോൾ നിങ്ങൾ വളരെ വലിയ പോസിറ്റീവ് സംഖ്യയായി β0 β1 എടുക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ വളരെ വലിയ പോസിറ്റീവ് സംഖ്യയും ഡിനോമിനേറ്റർ 1 വളരെ വലിയ പോസിറ്റീവ് സംഖ്യയും ആയിരിക്കും അതിനാൽ ഇത് മുകൾ ഭാഗത്ത് 1 കൊണ്ട് പരിമിതപ്പെടുതാം ഇപ്പോൾ ഹൈപ്പർ പ്ലെയിനിന്റെ സമവാക്യത്തിൽ നിന്ന് 0 നും 1 നും ഇടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രോബബിലിറ്റിയുടെ നിർവചനം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു അതിനാൽ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രധാന ആശയമാണ് ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ സമവാക്യം നോക്കുക ഒരു പുതിയ പോയിന്റ് വരുമ്പോഴെല്ലാം നമ്മൾ ഈ β0 β1 x വിലയിരുത്തുകയും അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി ഇത് yes ആണോ no ആണോ എന്ന് നമ്മൾ പറയാൻ പോവുകയാണ് ഇപ്പോൾ സംഭവിച്ചത് അതിനുപകരം ഈ സംഖ്യ ഈ പദപ്രയോഗത്തിലേക്ക് തിരികെ ചേർക്കുന്നു നിങ്ങൾക്ക് എന്ത് മൂല്യം ലഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു പ്രോബബിലിസ്റ്റിക് വ്യാഖ്യാനം ലഭിക്കും അതാണ് ഇവിടെ ഈ ആശയത്തിന്റെ ഭംഗി നിങ്ങൾക്ക് ഇത് ഈ രൂപത്തിൽ പുനഃക്രമീകരിക്കാം തുടർന്ന് ഇതിനെ p 1 - p β0 β1 x എന്ന് പറയാം ഞാൻ നിങ്ങൾക്ക് ഈ ഫോം കാണിക്കുന്നതിന്റെ കാരണം ഇടത് വശം ഓഡ് റേഷ്യോയുടെ ഒരു ലോഗ് ആയി വ്യാഖ്യാനിക്കാം ഇത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് അതിനാൽഅതാണ് ഇവിടെയുള്ള ബന്ധം ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രോബബിലിറ്റികൾ ഉണ്ട് അതുപോലെ ഓർക്കുക അവസാനത്തെ സ്ലൈഡുകളിൽ നമ്മൾ എഴുതിയപോലെ ഈ ഹൈപ്പർ പ്ലെയിൻ സമവാക്യം നിങ്ങൾ എഴുതുകയാണെങ്കിൽ β0 β11 X1 β12 X2 എന്ന് കാണം β0 β11 and β12 എന്നീ പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു ക്ലാസിഫയറെ തിരിച്ചറിയുന്ന ജോലി നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് അതിനാൽ ഇതിനുള്ള മൂല്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഇതിനുള്ള ഒരു മൂല്യം ലഭിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒരു പുതിയ പോയിന്റ് ലഭിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് അവസാന സ്ലൈഡിൽ കണ്ട p of x സമവാക്യത്തിലേക്ക് ഇടുകയും തുടർന്ന് ഒരു പ്രോബബിലിറ്റി നേടുകയും ചെയ്യും അതിനാൽ ഇത് ഇപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട് ഈ വശത്ത് സ്റ്റാറുകൾ ഉള്ള ഒരു ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ β0 β11 β12 എന്നിവ തിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഈ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലം പരിഹരിക്കുന്നത് അതിനാൽ ഈ മൂല്യങ്ങൾ തിരിച്ചറിയുന്നതിന് എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളും ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമായി ചില അർത്ഥങ്ങളിൽ വ്യാഖ്യാനിക്കാമെന്ന് ഒപ്റ്റിമൈസേഷൻ ലെക്ചറുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക അതിനാൽ ഇവിടെ വീണ്ടും നമ്മൾ അതേ കാര്യത്തിലേക്ക് മടങ്ങിവരുന്നു തുടർന്ന് ഈ ഹൈപ്പർപ്ലെയിൻ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഈ മൂല്യങ്ങൾ തിരിച്ചറിയാൻ ചില ഒബ്ജക്റ്റീവ് ഫങ്ഷനുകൾ ആവശ്യമായി വരും അതിനാൽ ഈ β0 β11 β12 എന്നിവ ഡിസിഷൻ വേരിയബിളുകളായി മാറും പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ ആവശ്യമാണ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രതിഫലിപ്പിക്കണം അതിനാൽ ഇവിടെയുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇത് വിശദീകരിക്കും അതിനാൽ ഒപ്റ്റിമൈസേഷൻ പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇത് പരമാവധിയാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം ഈ സാഹചര്യത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് β0 β11 β12 എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ പരമാവധി ആക്കും അതിനാൽ ഈ ഒബ്ജക്റ്റീവ് നോക്കാൻ ഒരു നിമിഷമെടുക്കുക എന്നിട്ട് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുക അതിനാൽ ഞാൻ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കുമ്പോൾ ഞാൻ ഇത് വീണ്ടും വരയ്ക്കുന്നുവെന്ന് പറയാം ഇപ്പോൾ എനിക്ക് ഈ പോയിന്റുകൾ ഒരു വശത്തും മറ്റേ പോയിന്റുകൾ മറുവശത്തും ഉണ്ടെന്ന് പറയാം അതിനാൽ നമുക്ക് ഇതിനെ ക്ലാസ് 0 എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ ക്ലാസ് 1 എന്നും വിളിക്കാം അതിനാൽ ഈ ഡിസിഷൻ ഫങ്ഷനെ പ്രോബബിലിറ്റികളാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഈ ലൈനിൽ ആയിരിക്കുമ്പോൾ എനിക്ക് 0 5 എന്ന പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം ഇനി ഞാൻ ലൈനിൽ അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് 1 നും ക്ലാസ് 2 നും ഇടയിൽ ഒരു തിരഞ്ഞെടുക്കൽ ഇല്ല എന്നും പറയാം കാരണം പ്രോബബിലിറ്റി കൃത്യമായി 0 5 ആണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾക്ക് ഇത് പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും ഒരു കാര്യം പറയാം ഞാൻ ഈ വരിയിൽ നിന്ന് ഈ ദിശയിലേക്ക് പോകുമ്പോൾ ക്ലാസ് 1 ൽ നിന്നുള്ള ഡാറ്റയുടെ പ്രോബബിലിറ്റി കുറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡാറ്റ ക്ലാസ് 1 ൽ ആവാനുള്ള പ്രോബബിലിറ്റി കുറയുന്ന നിമിഷം അതായത് ഇവിടെ 2 ക്ലാസുകൾ മാത്രമുള്ളതിനാലും ഇത് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായതിനാൽ സ്വയമേവ അർത്ഥമാക്കുന്നത് ഡാറ്റ ക്ലാസ് 0 യിൽ ആവാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനാൽ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്നും പോയതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക അതിനാൽ ഇവിടെ ഡാറ്റാ പോയിന്റ് ക്ലാസ് 1 ൽ വരാനുള്ള പ്രോബബിലിറ്റി 0 5 ആണെന്ന് പറയാം അടിസ്ഥാനപരമായി അത് ഒന്നുകിൽ ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 0 ൽ ഉൾപ്പെടാം അങ്ങനെയാണെങ്കിൽ ഡാറ്റാ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഇവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ക്ലാസ്സ് 1 ലേക്ക് അല്ലെങ്കിൽ അത് ക്ലാസ് 0 ൽ ഉൾപ്പെട്ടിരിക്കണം അതിനാൽ അതാണ് അടിസ്ഥാന ആശയം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് നിർവചിച്ച പ്രോബബിലിറ്റി ഫംഗ്ഷൻ അത്തരത്തിലുള്ളതായിരിക്കണം ഒരു ഡാറ്റാ പോയിന്റ് ക്ലാസ് 0 ൽ ഉൾപ്പെടുമ്പോൾ അത് ആ പ്രോബബിലിറ്റി എക്സ്പ്രഷനിൽ ഇടുമ്പോഴെല്ലാം ഒരു ചെറിയ പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഇത് പ്രോബബിലിറ്റിയെ ക്ലാസ് 1 ൽ ഉൾപ്പെട്ടിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റിയായി വ്യാഖ്യാനിച്ചേക്കാം കൂടാതെ ഞാൻ ഈ വശത്ത് നിന്ന് ഒരു ഡാറ്റ പോയിന്റ് എടുത്ത് ആ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ ഇടുമ്പോഴെല്ലാം പ്രോബബിലിറ്റി വളരെ ഉയർന്നതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രോബബിലിറ്റി ക്ലാസ് 1 ൽ ഉള്ളതാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾഅതാണ് അടിസ്ഥാനപരമായ ആശയം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇത് പാരാഫ്രേസ് ചെയ്യാം തുടർന്ന് ഈ വശത്തുള്ള ഏത് ഡാറ്റാ പോയിന്റും ക്ലാസ് 0 ൽ ഉൾപ്പെടുന്നതാണെന്ന് പറയാം ആ പ്രോബബിലിറ്റി ഫംഗ്ഷനിലേക്ക് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p of x നെ ചെറുതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെതന്നെ ഈ വശത്തുള്ള ഏതൊരു ഡേറ്റ പോയിന്റുകളും പ്രോബബിലിറ്റി ഫങ്ഷനിലേക്ക് മാറ്റി സ്ഥാപിക്കുബോൾ പ്രോബബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡാറ്റാ പോയിന്റ് 0 ക്ലാസ്സിൽ പെട്ടതാണെങ്കിൽ Yi 0 ആണ് അതിനാൽ ഒരു ഡാറ്റാ പോയിന്റ് 0 ക്ലാസ്സിൽ പെടുമ്പോൾ പവർ 0 എന്നത്1 ആകുമ്പോൾ ഇത് അപ്രത്യക്ഷമാകും അതിനാൽ ഉൽപ്പന്നത്തിൽ ഈ ഫോമിന്റെ ഫംഗ്ഷനുകൾ ഉണ്ടാകും അത് xi യുടെ 1 p ആയിരിക്കും Yi 0 ആയതിനാൽ ഇത് 1 ആയി മാറും അതിനാൽ ഇത് പവർ 0 1 ആയി മാറും അതിനാൽ ഈ പദം അപ്രത്യക്ഷമാകും xi യുടെ 1 p മാത്രമാണ് അവശേഷിക്കുന്നത് അതിനാൽ നമ്മൾ x I യുടെ 1 p പരമാവധിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് xi യുടെ p കുറയ്ക്കുന്നതിന് തുല്യമാണ് അതിനാൽ ക്ലാസ് 0 ൽ ഉൾപ്പെടുന്ന എല്ലാ പോയിന്റുകൾക്കും ഞങ്ങൾ xi യുടെ p കുറയ്ക്കുന്നു ഇപ്പോൾ ക്ലാസ് 1 ൽ നിന്നുള്ള ഡാറ്റാ പോയിന്റിന്റെ മറ്റൊരു കേസ് നോക്കാം ഈ സാഹചര്യത്തിൽ yi 1 അതിനാൽ 1 1 0 ആണ് അതിനാൽ ഈ പദം ഏകദേശംപവർ 0 ആണ് അത് 1 ആയിമാറും അതിനാൽ അത് ഉപേക്ഷിക്കാൻ കഴിയില്ല അവശേഷിക്കുന്ന ഒരേയൊരു കാര്യം p ഓഫ് xi ഇപ്പോൾ yi 1 ആണ് അതിനാൽ പവർ 1 എന്നതിൽ p of xi മാത്രം അവശേഷിക്കും ഈ ഡാറ്റ ക്ലാസ് 1 ൽ ഉൾപ്പെടുന്നതിനാൽ ഈ പ്രോബബിലിറ്റി വളരെ വലുതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് പരമാവധി വർദ്ധിപ്പിക്കുമ്പോൾ അത് വലിയ സംഖ്യയായിതീരും അതിനാൽ ഈ സമവാക്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചിന്തിക്കണം ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്പർ 1 ഇത് ഓരോ ഡാറ്റാ പോയിന്റുകൾക്കുമുള്ള പ്രോബബിലിറ്റികളുടെ ഗുണനമാണ് അതിനാൽ ഇതിൽ ക്ലാസ് 0 ക്ലാസ് 1 എന്നിവയിൽ നിന്നുള്ള ഡാറ്റാ പോയിന്റുകൾ ഉൾപ്പെടുന്നു നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് നിരവധി സംഖ്യകളുടെ ഒരു ഉൽപ്പന്നം ഉണ്ടെന്ന് പറയട്ടെ ഓരോ സംഖ്യയും പോസിറ്റീവ് റൈറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓരോ ഇന്റിവിജ്വൽ നമ്പറുകളും പരമാവധിയാക്കുമ്പോൾ ഉൽപ്പന്നം ആയിരിക്കും പരമാവധി അതിനാൽ അതാണ് ഇവിടെയും പ്രവർത്തിക്കുന്ന തത്വം അതിനാലാണ് നമ്മൾ എല്ലാ പ്രോബബിലിറ്റികളുടെയും പ്രൊഡക്ടിനെ ഇത് ചെയ്യുന്നത് എന്നിരുന്നാലും ഒരു ഡാറ്റാ പോയിൻറ് ക്ലാസ് 1 ൽ ഉൾപെടെണമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഉയർന്നതായിരിക്കണം അതായതു ഒരു ഇന്റിവിജ്വൽ പദം p of xi എന്ന് എഴുതാം ഇത് ക്ലാസ് 1 ന് ഉയർന്നതാണ് ഒരു ഡാറ്റാ പോയിന്റ് ക്ലാസ് 0 ൽ ഉൾപ്പെടുമ്പോൾ ഈ നമ്പർ ഉയർന്നതായിരിക്കണം അതായത് ഈ നമ്പർ ചെറുതായിരിക്കണം അതിനാൽ ക്ലാസ് 0 ക്ലാസ് 1 എന്നിവയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വയമേവ എടുത്തോളും അതിനാൽ ഇത് വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുമെങ്കിലും ഇത് ഈ രീതിയിൽ എഴുതിയതിനാൽ ഫലപദപ്രയോഗമായി എഴുതുന്നത് എളുപ്പമാണ് ഇത് എങ്ങനെ കാണപ്പെടുമെന്ന് അറിയാൻ നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം എനിക്ക് ക്ലാസ് 0 ഉണ്ടെന്നും എനിക്ക് X1 X2 എന്നീ 2 ഡാറ്റാ പോയിന്റുകളും ക്ലാസ്സ് 1ൽ X3 X4 എന്നീ 2 ഡാറ്റാ പോയിന്റുകളും ഉണ്ടെന്ന് പറയാം അതിനാൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇതുപോലെ കാണപ്പെടും അതിനാൽ 0 ക്ലാസ്സിൽ പെടുന്ന ഈ പോയിന്റുകൾ എടുക്കുമ്പോൾ ഇവിടെ ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഇത് രണ്ടാമത്തെ ഡാറ്റാ പോയിന്റിന് X1 ന്റെ 1 p ആയിരിക്കും ഇത് X2 ന്റെ 1 p ആയിരിക്കും തുടർന്ന് ഡാറ്റ മൂന്നാം ഡാറ്റാ പോയിന്റിന് ഇത് p of X3 യും നാലാമത്തെ ഡാറ്റാ പോയിന്റിന് ഇത് p of X4 ഉം ആയിരിക്കും അതിനാൽ ഇവിടെ നിന്നുള്ള പദപ്രയോഗം ഇതായിരിക്കും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഇത് പരമാവധിയാക്കുന്നു p of X കൾ 0 നും 1 നും ഇടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ് ഉൽപ്പന്നം പരമാവധിയാക്കണമെങ്കിൽ ഓരോ സംഖ്യയും വ്യക്തിഗതമായി പരമാവധിയാക്കുക അതായത് ഇത് പരമാവധിയാക്കണം അതിനാൽ അത് 1 ന് അടുത്ത് പോകുകയും 1 ലേക്ക് അടുക്കുകയും ചെയ്യും അത് നല്ലതാണ് അതിനാൽ X4 ക്ലാസ് 1 ൽ ഉൾപ്പെടാൻ ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്ക് കാണാം അതുപോലെ X3 ക്ലാസ് 1 ൽ ഒപ്റ്റിമൈസ് ചെയ്യപ്പെടും നിങ്ങൾ ഈ രണ്ട് സംഖ്യകളിലേക്ക് വരുമ്പോൾ p of X1 ചെറിയ നമ്പർ ആണെങ്കിൽ ഇതൊരു വലിയ സംഖ്യയാണെന്ന് നിങ്ങൾ കാണും അതിനാൽ p of X1 അർത്ഥമാക്കുന്നത് X1 ക്ലാസ്സ് 0 ആയി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അതുപോലെ X2 ക്ളാസും 0 ലേക്ക് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ആശയമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ ട്രിക്ക് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുത്ത് അതിന്റെ ഒരു ലോഗ് പരമാവധിയാക്കുക എന്നതാണ് അതിനാൽ ഞാൻ ഒരു പോസിറ്റീവ് സംഖ്യ X ആണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അത് X ന്റെ ലോഗ് പരമാവധിയാക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഇത് പരമാവധിയാക്കുമ്പോഴെല്ലാം അതും പരമാവധി വർദ്ധിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ കാരണം അത് ഉൽപ്പന്നത്തെ ഒരു തുകയാക്കി മാറ്റുകയും അത് ലളിതമാക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ നമ്മുടെ ഒപ്റ്റിമൈസേഷൻ ലെക്ച്ചറുകളിൽ നിന്ന് ഓർക്കുക ഈ ലക്ഷ്യം പരമാവധിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ ഡിസിഷൻ വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ഈ ഒബ്ജക്റ്റീവ് എഴുതുന്നു ഈ സാഹചര്യത്തിൽ ഡിസിഷൻ വേരിയബിളുകൾ നമ്മൾ മുമ്പ് വിവരിച്ചതുപോലെ β naught β 1 1 and β 1 2 ഉം അല്ല അതിനാൽ സംഭവിക്കുന്നത് ഈ പ്രോബബിലിറ്റി എക്സ്പ്രഷനുകളിൽ ഓരോന്നിനും നിങ്ങളുടെ മുൻ സ്ലൈഡുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചുവിളിച്ചാൽ ഈ 3 വേരിയബിളുകൾ ഉണ്ടായിരിക്കും കൂടാതെ xi എന്നത് ഇതിനകം നൽകിയിരിക്കുന്ന പോയിന്റുകളാണ് അതിനാൽ നിങ്ങൾ അവയെ ഈ പദപ്രയോഗത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുക അതിനാൽ ഈ മുഴുവൻ പദപ്രയോഗവും β0 β11 β12 എന്നിവയുടെ ഫംഗ്ഷനായി മാറും ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് പരിചിതമായ ഒപ്റ്റിമൈസേഷൻ ടെറിട്ടറിയിലേക്ക് മടങ്ങിയെത്തി അവിടെ ഈ ഡിസിഷൻ വേരിയബിളുകളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇത് പരമാവധിയാക്കേണ്ടതുണ്ട് ഇത് ഒരു അനിയന്ത്രിതമായ മാക്സിമൈസേഷൻ പ്രശ്നമാണ് കാരണം ഞങ്ങൾ β0 β11 and β12 എന്നിവയിൽ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നില്ല അതിനാൽ നമുക്ക് ആവശ്യമുള്ള ഏത് മൂല്യവും അവർക്ക് എടുക്കാൻ കഴിയും കൂടാതെ പ്രോബബിലിറ്റി നിർവചിച്ചിരിക്കുന്ന രീതിയിൽ ഇത് ഒരു നോൺ ലീനിയർ ഫംഗ്ഷൻ ആകും അതിനാൽ നമുക്ക് നിരവധി ഡിസിഷൻ വേരിയബിളുകളിൽ നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമുണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ഉപയോഗിക്കാം നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹൈപ്പർപ്ലെയ്ൻ ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഒരു ദ്വിമാന പ്രോബ്ലം ആണ് അതിനാൽ നമുക്ക് 3 പാരാമീറ്ററുകൾ ഉണ്ട് ഇപ്പോൾ അവിടെ ഒരു n ഡൈമൻഷണൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് n വേരിയബിളുകൾ ഉണ്ടെന്ന് പറയാം അതിനാൽ എനിക്ക് β0 β11 x1 β12 x2 പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകും കൂടാതെ β1n ഇൽ ഇതൊരു n 1 വേരിയബിൾ പ്രശ്നമായിരിക്കും n 1 ഡിസിഷൻ വേരിയബിളുകൾ ഉണ്ട് കൂടാതെ ഈ n 1 ഡിസിഷൻ വേരിയബിളുകൾ ഒപ്റ്റിമൈസേഷൻ പരിഹാരത്തിലൂടെ തിരിച്ചറിയാം ഏതൊരു പുതിയ ഡാറ്റാ പോയിന്റും ഒരിക്കൽ ഞങ്ങൾ വിവരിച്ച സിഗ്മോയ്ഡൽ ഫംഗ്ഷന്റെ p of x ക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് ക്ലാസ് 0 ലോ ക്ലാസ് 1 ലോ ഉള്ളതാകാനുള്ള പ്രോബബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ലോജിസ്റ്റിക് റിഗ്രഷന്റെ അടിസ്ഥാന ആശയം ഇതാണ് അടുത്ത പ്രഭാഷണത്തിൽ ഇത് പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളെ കാണിക്കുന്നതിന് നിരവധി ഡാറ്റാ പോയിന്റുകളുള്ള വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ എടുക്കും കൂടാതെ ഞങ്ങൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്യുമ്പോൾ ഓവർഫിറ്റിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്ന റെഗുലറൈസേഷൻ എന്ന ആശയവും ഞാൻ അവതരിപ്പിക്കും അതോടെ ലോജിസ്റ്റിക്സ് റിഗ്രഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സൈദ്ധാന്തികമായ ഒരു ധാരണ ഉണ്ടാവും കൂടാതെ ഒരു കേസ് സ്റ്റഡി പ്രോബ്ലത്തിൽ R ൽ ഈ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്നുള്ള ഒരു ലെക്ച്ചറിൽ ഡോക്ടർ ഹേമന്ത് കുമാർ വിശദീകരിക്കും അതിനാൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒരു ഉദാഹരണ പ്രശ്നത്തിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്നും അത് നിങ്ങൾക്ക് പ്രായോഗിക അനുഭവം നൽകും നന്ദി അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾക്ക് വീണ്ടും കാണാം